അപ്പോൾ ഇതാണ് മീപ് എന്ന് വിളിക്കപ്പെടുന്നത് എഴുതിയത് കാണുന്നുണ്ടല്ലോ അല്ലേ അതിനാൽ ഇതെല്ലാം ഞാൻ വായിക്കുന്നില്ല ഇതിലൂടെ ഞാൻ ഒരു FDTD പ്രോഗ്രാം എങ്ങനെ ചെയ്യാമെന്ന് കാണിക്കാം അപ്പോൾ അതിൻറെ പടി പടിയായുള്ള പ്രവർത്തനരീതികൾ എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു ധാരണയും നമുക്ക് ലഭിക്കും അതിനാൽ നമുക്ക് പോകാം അതിനാൽ അവർക്ക് ഉള്ള ആദ്യ ഉദാഹരണം ആയി എടുത്തിരിക്കുന്നത് ഒരു വേവ്ഗൈഡിലെ ഫീൽഡുകൾ ആണ് അതിനാൽ ഒരു വേവ്ഗൈഡ് ഉണ്ടെന്ന് സങ്കൽപ്പിക്കുക അതിലൂടെ വളരെ ലളിതമായി തരംഗം അയയ്ക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നു ഈ സന്ദർഭങ്ങളിൽ നമുക്ക് വിശകലനപരമായി അറിയാം ഫീൽഡുകൾ എങ്ങനെയാണെന്ന് നമുക്ക് വിശകലനപരമായി കണക്കുകൂട്ടാൻ കഴിയും പക്ഷേ ഇത് നമ്മുടെ ലക്ഷ്യം അല്ല ഈ സിമുലേഷൻ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അതിനാൽ ഇവിടെയുള്ള ആദ്യ വരി എന്താണെന്നാൽ അതിനാൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇത് സ്കീം എന്ന ഭാഷയിൽ എഴുതിയതാണ് അത് അൽപ്പം അസാധാരണമായ ഭാഷയാണ് അതിനാൽ നമ്മൾ അതിൻറെ വാക്യഘടനയിലേക്ക് പോകുന്നില്ല എന്നാൽ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ഈ വലുപ്പം 16 8 ആണ് വലുപ്പം ഇല്ല ഇത് കമ്പ്യൂട്ടേഷണൽ ഡൊമെയ്നിന്റെ വലുപ്പം നിങ്ങളോട് പറയുന്നു അതായത് x ൽ 16 യൂണിറ്റുകളും y ൽ 8 യൂണിറ്റുകളും z ൽ മൂല്യങ്ങളും ഇല്ലെങ്കിൽ അതിനെ 2D സിമുലേഷൻ എന്നാണ് അർത്ഥമാക്കുന്നത് അടുത്തതായി ഞാൻ വസ്തു ഉണ്ടാക്കണം വസ്തു എന്താണ് ഇത് ഒരു വേവ്ഗൈഡ് ആണ് അതിനാൽ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഒരു വേവ്ഗൈഡ് ഇവിടെയുള്ള ഈ കറുത്ത വരയാണ് അതിനാൽ ഇത് ഒരു സ്ലാബ് വേവ്ഗൈഡ് പോലെയാണ് അതിനാൽ എനിക്ക് വേവ്ഗൈഡിനൊപ്പം x ഉണ്ട് തുടർന്ന് y എന്നത് മറ്റൊരു അക്ഷമാണ് അതിനാൽ ഇവിടെ വേവ് ഗൈഡ് നിർമ്മിക്കുന്നു അതിനാൽ ഇത് ചില ൻറെ ബ്ലോക്കായി നിർമ്മിക്കുന്നു അതിനാൽ ആയി നൽകിയിരിക്കുന്നു വീതി 1 യൂണിറ്റായും മറ്റ് അളവിൽ അനന്തമായും നൽകിയിരിക്കുന്നു നല്ല രീതിയിൽ സ്വയം അറിഞ്ഞ് എഴുതുന്നതാണ് അല്ലേ അതിനാൽ ഈ കറുത്ത സ്ട്രിപ്പിന്റെ വീതി 1 ആണ് അതിൻറെ എപ്സിലോൺ 12 ന് തുല്യമാണ് അത് എന്നെന്നേക്കുമായി വ്യാപിക്കുന്നു ഇത് എന്നെന്നേക്കുമായി വ്യാപിക്കുന്നു കാരണം നമുക്കിവിടെ 16 യൂണിറ്റുകൾ ഉണ്ട് അതിനാൽ പ്രായോഗികമായി ഇത് 16 യൂണിറ്റായിരിക്കും ഇപ്പോൾ സ്വതവേ മറ്റെല്ലാം വാക്വം ആണ് അതാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അടുത്തതായി ഒരു ഉറവിടം എടുക്കുന്നു വേവ്ഗൈഡിലെ ചില ഫീൽഡുകൾ ഉത്തേജിപ്പിക്കുന്നതിന് എനിക്ക് ഒരു ഉറവിടം നൽകേണ്ടതുണ്ട് അവിടെ എനിക്ക് തരംഗം എങ്ങനെ ലഭിക്കും അപ്പോൾ അവർ എന്താണ് ചെയ്തത് അവർ ഒരു തരം ഫീൽഡ് ഉണ്ടാക്കി അവർ ചില സാധാരണ യൂണിറ്റുകളിൽ ചില ആവൃത്തി നൽകിയിട്ടുണ്ട് 0 15 അതാണ് ആവൃത്തി അവർ പറയുന്നത് ഇവിടെ ധ്രുവീകരണമാണെന്നും അവർ അതിന് ഒരു കേന്ദ്രം നൽകി അതിനാൽ ഇവിടെ വലിപ്പം 16 ആണെന്ന് ഓർക്കുക അപ്പോൾ 8 മുതൽ 8 വരെ ആയിരിക്കും അതിനാൽ 7 ൽ അത് ഇടതുവശത്താണ് ഉണ്ടായിരിക്കുക അവിടെയാണ് ഞാൻ ധ്രുവീകരിക്കപ്പെട്ട ഉറവിടം നൽകുന്നത് ഇത് ഏതുതരം ഉറവിടമാണ് തുടർച്ചയായ തരംഗം അത് യഥാസമയം ആരംഭിക്കുന്ന ഉറവിടമല്ല തുടർച്ചയായി ക്ഷയിക്കുന്ന തരംഗവുമല്ല ഇതു ഒരു തുടർച്ചയായ വൈദ്യുത തരംഗമാണ് ഇവിടെ ഡൈഇലക്ട്രിക് എന്നത് വേവ്ഗൈഡ് ആണ് ഈ കാണുന്ന കറുത്ത സ്ട്രിപ്പ് വേവ്ഗൈഡ് ആണ് എന്തുകൊണ്ടാണ് തരംഗം പുറത്തുപോകാത്തത് നല്ല ചോദ്യം ഇതിനുള്ളിൽ ഞാൻ അത് ഉത്തേജിപ്പിക്കുന്നു ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ബിരുദ കോഴ്സിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒന്നാണിത് ഇല്ല അതിനാൽ ഫീൽഡ് പുറത്തേക്ക് ഒഴുകുന്നില്ല ഈ സാഹചര്യത്തിൽ ഫീൽഡ് ഡൈഇലക്ട്രികിനുള്ളിൽ പരിമിതപ്പെട്ടിരിക്കുകയാണ് പക്ഷേ നിങ്ങൾക്ക് കാണാനാകും അത് പൂർണ്ണമായും അതിനുള്ളിൽ അത് നിയന്ത്രിക്കപ്പെടുന്നില്ല അതിൽ ചിലത് പുറത്തേക്ക് ഒഴുകിയേക്കാം മാക്സ്വെല്ലിന്റെ സമവാക്യം എത്രമാത്രം അത് പൂർണ്ണ ആന്തരിക പ്രതിഫലനത്തിന് വിധേയമാകുന്നു എന്ന് കണ്ടെത്തുന്നു അതിനെക്കുറിച്ച് നമ്മൾ വിഷമിക്കേണ്ടതില്ല വിദ്യാർത്ഥി അതു മാത്രമേയുള്ളൂ അതെ ചിലത് വഴികാട്ടും ചിലത് പുറത്തേക്ക് ചോർന്നുപോകും അതിനാൽ നമ്മൾ ഉറവിടം വ്യക്തമാക്കിയിട്ടുണ്ട് മറ്റെന്താണ് നമുക്ക് വ്യക്തമാക്കേണ്ടത് അതിർത്തി വ്യവസ്ഥ അല്ലേ അതിർത്തി വ്യവസ്ഥ ഞാൻ വ്യക്തമാക്കുന്നില്ലെങ്കിൽ എന്റെ സിമുലേഷൻ തെറ്റാകും അതിനാൽ അവർ ഇവിടെ PML വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് ഒരു വരിയിൽ ഉള്ള വിവരണം മാത്രമാണ് കട്ടി 1 ഉള്ള ഒരു PML സ്ഥാപിക്കുക അതിനാൽ നിങ്ങൾ ഈ കംപ്യൂട്ടേഷണൽ ഡൊമെയ്നിൽ എന്തുചെയ്യും ഇത് കനം 1 ഉള്ള ഒരു ചിത്രത്തിന്റെ ഫ്രെയിം പോലെയാകും അതുകൊണ്ടാണ് ഉറവിടം 8 ൽ വയ്ക്കാതെ 7 ൽ വയ്ക്കുന്നത് കാരണം നിങ്ങൾക്ക് ആവശ്യമുള്ള വസ്തുവിൽ ഉറവിടം ആവശ്യമില്ല അതിനു പുറത്ത് ആണ് നമുക്ക് വേണ്ടത് അതിനാൽ PML 8 മുതൽ 7 വരെയാണ് ഉറവിടം 7 ൽ ആണ് ഇപ്പോൾ നിങ്ങളുടെ ഉം ഉം ഓർക്കുക അത് ഇതുവരെ ശരിയാക്കിയിട്ടില്ല അതിനാൽ ഇവിടെ നമ്മൾ ഉദാഹരണത്തിന് ഈ സെറ്റ് റെസലൂഷൻ എന്നത് സജ്ജമാക്കിഅങ്ങനെ ക്രമീകരണം ഒരു സാധാരണ രീതിയിൽ സജ്ജമാക്കി കുറാൻ്റ് ഘടകം ഒരു സ്ഥിരസ്ഥിതി ഘടകമാണ് അത് സിമുലേഷനിൽ മുൻപുതന്നെ ഉറപ്പിച്ചതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റാവുന്നതാണ് പക്ഷേ അത് നിങ്ങൾക്ക് ഒരു സ്ഥിരസ്ഥിതിയുള്ള സ്ഥിരതയുള്ള സംഖ്യ തരുന്നു അതിനാൽ ഉറപ്പിക്കുന്നത് നല്ലതാണ് കുറാൻറിന് അനുസരിച്ച് ശരിയാകും ഒടുവിൽ ഞാൻ എത്രനേരം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് നിങ്ങൾ സിമുലേഷനോട് പറയണം അതിനാൽ ഫീൽഡുകൾ ഔട്ട്പുട്ട് ചെയ്യുന്നതിനായി 200 ടൈം യൂണിറ്റുകൾക്ക് കൂടുതൽ കമാൻഡുകൾ നൽകിയിട്ടുണ്ടെന്നും അവയെല്ലാം ശരിയാണെന്നും നമ്മൾ പറയുന്നു 200 സെക്കന്റുകളുടെ അവസാനം സിമുലേഷന്റെ ഔട്ട്പുട്ട് ഇതാണ് ഇങ്ങനെയാണ് ഫീൽഡുകൾ ശരിയായി കാണപ്പെടുന്നത് അതിനാൽ ഉറവിടം ഇവിടെയാണ് ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി പറയാനാകുമോ ഒരു വേവ്ഗൈഡിംഗ് വ്യക്തമായി സംഭവിക്കുന്നു എന്ന് വ്യക്തമായും ഫീൽഡ് വളരെ മനോഹരമായി വേവ്ഗൈഡിൽ ഒതുങ്ങുന്നു പക്ഷേ കൃത്യമായും അല്ല ചിലത് പുറത്തുപോകുന്നു അത് പ്രശ്നമല്ല ഇതൊരു നഷ്ടം സംഭവിക്കുന്ന വസ്തു അല്ല ഇവിടെ എന്നത് മാത്രമാണ് സാങ്കൽപ്പിക ഭാഗം ഇല്ല അതിനാൽ ഈ ഫീൽഡ് വളരെക്കാലം വളരെ ദൂരം തുടരും പക്ഷേ അതിൽ കുറച്ച് പുറത്തേക്ക് ഒഴുകുന്നത് നിങ്ങൾക്ക് കാണാം ഇടതുവശത്തുള്ള ഇന്റർഫേസിന് അടുത്തായി നിങ്ങൾക്ക് ഇവിടെ വിചിത്രമായ എന്തെങ്കിലും സംഭവിക്കുന്നത് കാണാം കാരണം അവിടെ ഒരു വിദ്യാർത്ഥി PML PML ഇവിടെയുണ്ട് അത് തികച്ചും ആഗിരണം ചെയ്യുന്നു പക്ഷേ ഞാൻ അർത്ഥമാക്കുന്നത് പ്രായോഗികമായി അതിൽ ചിലത് ശരിയായി ആഗിരണം ചെയ്യപ്പെടില്ല എന്നാണ് അതിനാൽ അവർ ഇവിടെ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നു കാരണം അവർ പെട്ടെന്ന് ഫീൽഡ് ഓൺ ആക്കി അതിനാൽ സിമുലേഷൻ t0 ൽ ആരംഭിച്ചു അടുത്ത സന്ദർഭത്തിൽ ഒരു ഉണ്ടായിരുന്നു അതിനാൽ ഭൌതികശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം ഫീൽഡിൽ പെട്ടെന്ന് ഒരു വഴിത്തിരിവ് ഉണ്ടെന്ന് നമുക്കറിയാം അതിനാൽ ചില ഉയർന്ന ആവൃത്തി ഘടകം അവിടെ ഉണ്ടായിരിക്കും അതിനാൽ ഇവിടെ വലതുവശത്ത് നമ്മൾ പറയുന്നത് അതാണ് ഈ ഫീൽഡിൽ ചില പുള്ളികൾ ഉള്ളതുപോലെ കാണപ്പെടുന്നു ഇവിടെ നിങ്ങൾ കാണുന്ന ഫീൽഡിൽ അതിൽ ചില ഷേഡിംഗ് തുടക്കത്തിൽ നിന്ന് അല്പം വ്യത്യസ്തമാണ് വളരെ നല്ല സമാനമായ കടും ചുവപ്പ് ഇവിടെയുണ്ട് ഇവിടെ ചുവപ്പിനുള്ളിൽ ചെറിയ വെളുത്ത ഡോട്ടുകൾ ഉണ്ട് അതിനാൽ ഫീൽഡ് പെട്ടെന്ന് ഓണാക്കിയതിന്റെ ഫലമായി ഉയർന്ന ആവൃത്തിയിലുള്ള ഘടകങ്ങളിൽ നിന്നാണ് ഇത് വരുന്നതെന്ന് അവർ പറയുന്നു ചുവപ്പും നീലയും എന്താണെന്ന് ഒരു നല്ല ചോദ്യമാണ് അതിനാൽ ചുവപ്പ് പരമാവധി പോസിറ്റീവും നീല എന്നത് പരമാവധി നെഗറ്റീവുമായി യോജിക്കും അതിനാൽ ഇത് സഞ്ചരിക്കുന്ന ഒരു തരംഗം പോലെയാണ് അതിനാൽ ഒരു തരംഗത്തിൽ മാക്സിമയും മിനിമയും മാറിമാറി സംഭവിക്കുന്നതാണ് ഇത് വിദ്യാർത്ഥി അതിലുള്ള വസ്തു അതിലുള്ള വസ്തു വിദ്യാർത്ഥി അതെ വെളുത്തത് 0 ആണ് അതെ വെളുത്ത ഇത് 0 ആണ് അതിനാൽ അതിനെയാണ് അവർ ഈ കടും നീല ചുവപ്പ് എന്ന് വിളിച്ചത് അതാണ് നിങ്ങൾ നിറത്തിന് ലെജെൻ്റ് വ്യക്തമാക്കുന്നത് അവർ അങ്ങനെയാണ് ചെയ്യുന്നത് അതിനാൽ സാധാരണയായി നിങ്ങൾ ചുവപ്പും വെള്ളയും സിമുലേഷൻ കാണുമ്പോൾ ഒന്ന് പരമാവധി പോസിറ്റീവ് ഒന്ന് പരമാവധി നെഗറ്റീവ് വെളുപ്പ് 0 ആണ് എന്ന് കരുതുക ഈ ഡോട്ട് ആണ് ഉറവിടം വിദ്യാർത്ഥി കടും നിറത്തിൽ ഇരുണ്ടത് യഥാർത്ഥത്തിൽ കടും ചുവപ്പ് പോലെയാണ് ഇത് കടും നീലയാണ് അത് എങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് നീല ചുവപ്പ് ഷേഡുകൾ അല്ല കടും നീലയുടെയും ഷേഡുകൾ കടും ചുവപ്പിൻറെയും ഷേഡുകൾ ആണ് അതിനാൽ കടും നീല ചുവപ്പ് ഒരു ലെജെൻ്റ് ആണ് നീല ചുവപ്പ് നമുക്ക് തിരഞ്ഞെടുക്കാവുന്ന മറ്റൊരു ലെജെൻ്റ് ആണ് അതിനാൽ അന്തരം വർദ്ധിപ്പിക്കുന്നതിന് ആളുകൾ വ്യത്യസ്ത കാര്യങ്ങൾ ഉപയോഗിക്കുന്നു വിദ്യാർത്ഥി ഓകെ അതിനാൽ വിശകലനപരമായി നിങ്ങൾക്ക് ചെയ്യാവുന്ന ഉദാഹരണമാണിത് എന്നാൽ FDTD യുടെ ശക്തി വിശകലനപരമായി സാധ്യമല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും എന്നതാണ് ഉദാഹരണത്തിന് വേവ്ഗൈഡിലെ 90 ഡിഗ്രി വളവ് അവർ പരിഗണിക്കുന്നു അത് വിശകലനപരമായി പരിഹരിക്കാൻ സാധിക്കുന്നതല്ല ഇപ്പോൾ പ്രായോഗികമായി എന്ത് സംഭവിക്കുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞാൻ ഒരു വേവ്ഗൈഡ് എടുക്കുന്നു അതിലൂടെ ഒരു തരംഗത്തെ ഞാൻ നയിക്കുന്നു ഞാൻ അതിനെ 90 ഡിഗ്രി വളയ്ക്കുന്നു പ്രായോഗികമായി അവിടെ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കും വിദ്യാർത്ഥി പുറത്തേക്ക് ഒഴുകും അതിൽ ചിലത് ചോർന്നൊലിക്കും അത് ഞാൻ വളയ്ക്കുന്ന വെള്ളം പോകുന്ന ഒരു പൈപ്പ് പോലെയല്ല അതിൽ എല്ലാ വെള്ളവും പുറത്തേക്ക് പോകുന്നു ഇവിടെ അതിൽ ചിലത് ചോർന്നുപോകും അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിനാൽ നമ്മുടെ അവബോധം ഇവിടെ സ്ഥിരീകരിക്കപ്പെട്ടോ എന്ന് നമുക്ക് നോക്കാം മുമ്പുള്ളതുപോലെ ഇപ്പോൾ അവർ പറയുന്ന കമ്പ്യൂട്ടേഷണൽ ഡൊമെയ്ൻ അതേ 16 ആയി എടുക്കുക 1 നിങ്ങൾ രണ്ട് ബ്ലോക്കുകൾ ഉണ്ടാക്കണം ഇതുപോലൊന്നും 90 ഡിഗ്രി വളവുള്ള ഒന്നും അതിനാൽ അവർ അത് ഇവിടെ കാണിച്ചു അതിനാൽ ഒന്ന് ഈ വഴിയും മറ്റൊന്ന് ഈ വഴിയും അവർ രണ്ട് ബ്ലോക്കുകൾ ഒരേ വസ്തുവിൽ വ്യക്തമാക്കി അത് ചെയ്തു എന്നാൽ ഈ കോർഡിനേറ്റുകൾ വ്യത്യസ്തമാണ് PML റെസല്യൂഷൻ എല്ലാം മുൻപത്തേതു തന്നെയാണ് ഇപ്പോൾ ആ പുള്ളികളുള്ള പ്രതിഭാസങ്ങൾ ഒഴിവാക്കാൻ ഉറവിടം പെട്ടെന്ന് ഓണാക്കുന്നതിനുപകരം അവർ എന്താണ് ചെയ്യുന്നത് ഇല്ല അവർ ഇപ്പോഴും തുടർച്ചയായി അതേ ഉറവിടമാണ് എടുക്കുന്നത് വളരെയധികം വീതിയുള്ള തരംഗദൈർഘ്യമുള്ള ഉറവിടമാണ് അവർ ഉപയോഗിക്കുന്നത് അതിനാൽ അവർ ഇപ്പോൾ ചെയ്യുന്നത് ഇതാണ് t 0 എന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഉറവിടം ഓണാക്കുന്നതിന് പകരം 20 സമയ യൂണിറ്റുകളുടെ വീതിക്ക് ആനുപാതികമായി നമ്മൾ ഇത് പതുക്കെ ഉയർത്തുന്നു അതിനാൽ ഈ വീതി 20 സമയ യൂണിറ്റുകൾക്ക് തുല്യമാണ് അത് നമുക്ക് ഉറവിടത്തിന്റെ ടേൺ ഓൺ സമയം നൽകുന്നു കൂടാതെ തരംഗ ദൈർഘ്യം നിങ്ങൾക്ക് ഇവിടെ നൽകിയിരിക്കുന്നു അതിനാൽ സാങ്കേതികമായി മീപ്പ് ടാൻ ഹൈപ്പർബോളിക് ഫംഗ്ഷൻ ഉപയോഗിച്ച് ഈ ടേൺ ഓൺ ഫംഗ്ഷൻ നടപ്പിലാക്കുന്നു ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ഓപ്പൺ സോഴ്സ് ആണ് നമുക്ക് പോയി കോഡ് നോക്കാനും ആ വിവരങ്ങളെല്ലാം കാണാനും കഴിയും വിദ്യാർത്ഥി ഓക്കേ മുമ്പത്തെപ്പോലെ ഇത് 200 ടൈം യൂണിറ്റുകൾക്കായി പ്രവർത്തിപ്പിക്കുക അതിനാൽ ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനാൽ ഔട്ട്പുട്ട് കാണപ്പെടുന്നത് ഇങ്ങനെയാണ് അതിനാൽ അതെ നിങ്ങൾക്ക് എല്ലാ സമയത്തും ഫീൽഡ് റെക്കോർഡുചെയ്യാൻ കഴിയുന്ന ഒരു ആനിമേഷൻ ആണിതെന്ന് നമുക്ക് കാണാൻ കഴിയും അതിനാൽ ഫീൽഡ് ഇപ്പോൾ പോകുന്നത് നിങ്ങൾക്ക് കാണാം അത് വളവിൽ തട്ടുകയും അത് വളവിന്റെ താഴത്തെ ഭാഗത്തേക്ക് വരാൻ തുടങ്ങുകയും ചെയ്യുന്നു പക്ഷേ മിക്കതും ആ ഇന്റർഫേസിൽ ചോർന്നുപോകുന്നു അതിനാൽ ഇത് FDTD യുടെ വളരെ രസകരമായ മറ്റൊരു വശമാണ് ഓരോ നിമിഷവും ഞാൻ സംഭരിക്കുകയാണെങ്കിൽ എനിക്ക് എല്ലാം കൂട്ടിച്ചേർത്ത് ഒരു ജിഫ് ഫയൽ ഉണ്ടാക്കാം അതിനാൽ അവർ ഇവിടെ കാണിക്കുന്നത് ഒരു ജിഫ് ഫയലാണ് ഞങ്ങൾ ആനിമേഷൻ കാണും അതിനാൽ നിങ്ങൾക്ക് ചോർച്ച കുറയ്ക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിവിധ ഘടകങ്ങൾ നമ്മുടെ ഇഷ്ടത്തിന് ശരിയാക്കാൻ കഴിയുംഇപ്പോൾ നമ്മൾ അതിലേക്ക് ഒന്നും പോകുന്നില്ല അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരുന്ന അവസാന ഉദാഹരണം ഒരു റിംഗ് റെസോണേറ്ററുടെ മോഡുകൾ ആണ് അതിനാൽ നിങ്ങൾ എല്ലാവരും റെസോണേറ്റർ എന്ന വാക്ക് കേട്ടിട്ടുണ്ട് അതിന്റെ അർത്ഥം ആവൃത്തിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഘടനയാണ് അത് ചില ആവൃത്തികൾ അനുവദിക്കുകയും മറ്റ് ആവൃത്തികളെ അവഗണിക്കുകയും ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ ചില ആവൃത്തിയിൽ പ്രവർത്തിക്കാൻ ഒരു റെസൊണേറ്റർ രൂപകൽപ്പന ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക അതിൽ FDTD നമ്മളെ എങ്ങനെ സഹായിക്കും വിദ്യാർത്ഥി ഓക്കേ അതിനാൽ നമുക്ക് ഇവിടെ ജ്യാമിതി നോക്കാം അതിനാൽ അവർ ഇത് എന്താണ് ചെയ്തത് അവർ ഒരു റിംഗ് റെസോണേറ്റർ ഉണ്ടാക്കി അപ്പോൾ റിംഗ് റിസോണേറ്റർ എന്താണ് ഒരു വേവ്ഗൈഡ് എടുത്ത് അതിനെ വൃത്തത്തിൽ വളക്കുക അതിനാൽ ഇതിന് ചുറ്റുമുള്ള അകലത്തിന്റെ പൂർണ്ണസംഖ്യകളുടെ ഗുണിതങ്ങളെ പിന്തുണയ്ക്കുന്ന മോഡുകൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞങ്ങൾക്കറിയാം അതിനാൽ ഇവിടെ ആ അവബോധം സ്ഥിരീകരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഇവയെല്ലാം വ്യക്തമാക്കിയിട്ടുള്ള വേവ്ഗൈഡിൻ്റെ വ്യാസം അവർക്കറിയാം അതെ കുറച്ച് പക്ഷേ മാധ്യമത്തിലെ ആണ് വിദ്യാർത്ഥി ഓക്കേ അതിനാൽ അവർ ഇവിടെ ഒരു സിലിണ്ടർ നിർമ്മിക്കുന്നു ഇവയെല്ലാം വസ്തു ഉണ്ടാക്കാൻ നിങ്ങൾ ഉപയോഗിക്കുന്നു തെറ്റായ ആവൃത്തിയിൽ ഞാൻ ഈ ഘടനയെ ഉത്തേജിപ്പിച്ചാൽ എന്ത് സംഭവിക്കും എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് വിദ്യാർത്ഥി ഒന്നും തന്നെ സംഭവിക്കുകയില്ല ഒന്നും സംഭവിക്കുകയില്ല എന്താണെന്നാൽ ഫീൽഡ് ക്ഷയിക്കും അത് പ്രതിധ്വനിപ്പിക്കുന്ന ഒരു പ്രതിഭാസമാകില്ല പക്ഷേ ഒരിക്കൽ ഞാൻ ഒരു എപ്സിലോൺ ഉപയോഗിച്ച് ഒരു ഘടന രൂപകൽപ്പന ചെയ്താൽ ജ്യാമിതി ചെറുതായി സങ്കീർണ്ണമാണെങ്കിൽ അതിൻറെ പ്രതിധ്വനി ആവൃത്തി എന്താണെന്ന് ഞാൻ അറിയണം അതിനാൽ ആ അനുരണന ആവൃത്തി ഞാൻ എങ്ങനെ കണ്ടെത്തും FDTD ൽ എനിക്ക് ഒരു ഉറവിടം നിർദ്ദേശിക്കാൻ കഴിയും അതിനുശേഷം ഒരാൾ എനിക്കൊരു ഘടന നൽകി അതിൻറെ പ്രതിധ്വനി ആവൃത്തി കണ്ടുപിടിക്കാൻ ആവശ്യപ്പെടുകയാണെന്ന് കരുതുക വിദ്യാർത്ഥി അതിനെ ഉത്തേജിപ്പിക്കുക എല്ലാ ആവൃത്തികളിലും ഉത്തേജിപ്പിച്ചതാണ് അതിനാൽ എല്ലാ ആവൃത്തികളും സാങ്കേതികമായി അസാധ്യമാണ് അതിനാൽ വൈറ്റ് ബാൻഡ് എന്നു പറയാം അതിനാൽ ഘട്ടം 1 വൈറ്റ് ബാൻഡ് ഉപയോഗിച്ച് അത് ഉത്തേജിപ്പിക്കുക എന്നതാണ് അതിനാൽ ഇവിടെ അവർ പറയുന്നത് അവർ ഒരു പൾസ് തരത്തിലുള്ള ആവൃത്തി ഉണ്ടാക്കുന്നു എന്നാണ് അതിനാൽ പൾസിന്റെ ഒരു കേന്ദ്രം നോർമലൈസ്ഡ് യൂണിറ്റുകളിൽ 0 15 ആണെന്നും ഒരു df ഉണ്ടെന്നും കൂടാതെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ ഒരു ഗോസിയൻ ഉറവിടം ഉപയോഗിക്കുന്നുവെന്നും അവർ പറയുന്നു അതിനാൽ അവർ ഒരു ഗോസിയൻ ഉറവിടം നൽകുന്നു അവിടെ അവർ ഇതിൻറെ കേന്ദ്ര ആവൃത്തിയും വീതിയും വ്യക്തമാക്കുന്നു അതെ അവർ ഭൌതികശാസ്ത്രജ്ഞരാണ് അവർ വിചിത്രമായ ഒരു കൂട്ടം കോർഡിനേറ്റ് യൂണിറ്റുകളിൽ ജോലി ചെയ്യുന്നു അവിടെ പ്രകാശത്തിന്റെ വേഗത 1 ആണ് അതിനാൽ എല്ലാം 1 ആയി വളരെ മനോഹരമായി സാധാരണവൽക്കരിച്ചിരിക്കുന്നു അതിനാൽ ഇത് ഉപയോഗിക്കുന്നതിന് കുറച്ച് സമയമെടുക്കും എന്നാൽ ഒരിക്കൽ നിങ്ങൾ അത് ഉപയോഗിക്കുമ്പോൾ എല്ലാം വളരെ ശക്തമാണ് അതെ പ്രകാശത്തിന്റെ വേഗത 1 ആണ് തരംഗ ദൈർഘ്യവും 1 ആണ് അതിനാൽ നിങ്ങൾ കുറച്ച് ഒരു 300 എന്നൊരു സമയം അത് പ്രവർത്തിപ്പിക്കുന്നു അതിനാൽ ഇപ്പോൾ നമ്മൾ സിമുലേഷൻ ചെയ്തുവെന്ന് സങ്കൽപ്പിക്കാം ഔട്ട്പുട്ട് നിങ്ങൾ എങ്ങനെ വ്യാഖ്യാനിക്കും ഔട്ട്പുട്ട് എല്ലാ സമയത്തും സ്ഥാനങ്ങളിലുമുള്ള ഫീൽഡുകളായിരിക്കും ഇല്ല പക്ഷേ നമ്മൾ വീതിയുള്ള ബാൻഡിലേക്ക് ഉത്തേജിപ്പിച്ചു പക്ഷേ എന്റെ FDTS ഔട്ട്പുട്ടിൽ എനിക്ക് ആവൃത്തി വിവരങ്ങൾ ലഭിക്കുന്നില്ല E ആവൃത്തിക്ക് താഴെയുള്ള സ്ഥലത്തിന്റെയും സമയത്തിന്റെയും പ്രവർത്തനം ആണ് അതിനാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അത് അതെ അതിനാൽ അദ്ദേഹം പറയുന്നു ഘടനയ്ക്ക് ചുറ്റും പോയി നോഡുകൾ എവിടെയാണെന്ന് കണ്ടെത്തുക അത് വളരെ അസംസ്കൃതമായ വഴിയാണ് വേറെന്തെങ്കിലും സമർഥമായ വഴിയുണ്ടോ ഫുറിയർ പരിവർത്തനം കണ്ടുപിടിക്കുക ഡെൽറ്റയിൽ എനിക്ക് സമയ ഡൊമെയ്ൻ ഉണ്ട് ഫോറിയർ ട്രാൻസ്ഫോമുകൾ കണക്കുകൂട്ടുക അത് എനിക്ക് ഏറ്റവും മികച്ച മാർഗ്ഗം ആവൃത്തിക്കനുസരിച്ച ഉയർന്ന വ്യാപ്തികൾ മാത്രമല്ല അവ എത്രത്തോളം തീവ്രതയുള്ളതാണെന്ന് അവർ പ്രതിഫലിപ്പിക്കുന്നു അതിനാൽ ഇവക്ക് ഹാം ഇൻവേഴ്സ് എന്ന അതിനുള്ളിൽ സ്വന്തമായുള്ള ഫംഗ്ഷൻ ഉണ്ട് ഇത് ശരിയാണ് ഇത് വിപരീത ഫുറിയർ പരിവർത്തനം പോലെയാണ് അതിനാൽ സിമുലേഷൻ തന്നെ പറയുന്നു നിങ്ങളുടെ സിമുലേഷൻ 300 സമയ സന്ദർഭങ്ങളിൽ പ്രവർത്തിപ്പിക്കുക ഇതിൻറെ അവസാനം ഉറവിടങ്ങൾ പ്രവർത്തിച്ചതിന് ശേഷം ഈ സ്ഥലത്ത് ഒരു കേന്ദ്ര ആവൃത്തിയിൽ വിപരീത ഫുറിയർ പരിവർത്തനം നിങ്ങൾക്ക് നൽകുന്നു അതിനാൽ ഇത് അവർ കോഡ് ചെയ്തതും ഔട്ട്പുട്ട് ടെക്സ്റ്റിൽ വരുന്നതുമാണ് അതിനാൽ അവർ ഇത് ചെയ്യുമ്പോൾ ഉയർന്ന വ്യാപ്തികൾ പുറത്തെടുക്കുന്നത് നിങ്ങൾക്ക് കാണാം അതിനാൽ നിങ്ങൾക്ക് 3 ഉയർന്ന വ്യാപ്തികൾ ലഭിക്കും അതിനാൽ അതാണ് ആവൃത്തി Q ഇത് എന്നത് ഗുണനിലവാര ഘടകം ആണ് ഗുണനിലവാര ഘടകം റെസോണൻസ് എത്രത്തോളം മികച്ചതാണെന്ന് എന്നോട് പറയുന്നു മുമ്പ് നിങ്ങൾ ഇത് പഠിച്ചിട്ടുണ്ടായിരിക്കും അതിനാൽ Q ഘടകവും പുറത്തുവരുന്നു ഉദാഹരണത്തിന് ആദ്യ മോഡിൽ Q 80 ഉം 300 ഉം പിന്നെ 1677 ഉം ആണ് അതിനാൽ 1677 ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന Q നോട് യോജിക്കുന്നു അടുത്തതായി ഒരു വിപരീത ഫുറിയർ പരിവർത്തനത്തിന്റെ ചില സിദ്ധാന്തങ്ങളാണ് പക്ഷേ നിങ്ങൾക്കെല്ലാവർക്കും അത് അറിയാം അതിനാൽ എനിക്ക് ചെയ്യാനാകുന്ന അടുത്ത കാര്യം ഓരോ ഫ്രീക്വൻസിയും തിരഞ്ഞെടുത്ത് ആ ഫ്രീക്വൻസികളിൽ നേരിയ ബാൻഡ് ഉപയോഗിച്ച് സിമുലേഷൻ വീണ്ടും പ്രവർത്തിപ്പിക്കുക എന്നതാണ് അത് ആ മോഡിനെ മാത്രം ഉത്തേജിപ്പിക്കും അല്ലാതെ മറ്റുള്ളവയെ അല്ല അതിനാൽ അവർ ഇവിടെ കാണിക്കുന്നത് ആ മൂന്ന് മോഡുകളാണ് അതിനാൽ ആദ്യ മോഡ് രണ്ടാമത്തെ മോഡും മൂന്നാമത്തെ മോഡും ഇവ വീണ്ടും ജിഫ് ഫയലുകൾ നിർമ്മിക്കുന്നു അതിനാൽ ഇതിന് ഏറ്റവും കുറഞ്ഞ Q ആണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മുടെ Q കൾ എന്തായിരുന്നു 80316 ഉം ഏകദേശം 1600 ഉം അതിനാൽ ഇത് ഏറ്റവും കുറഞ്ഞ Q ആണ് കൂടാതെ Q വലുതായിത്തീരുന്നതിനനുസരിച്ച് ധാരാളം ഫീൽഡുകൾ വേവ്ഗൈഡിന് പുറത്ത് ചോർന്നൊലിക്കുന്നതായി കാണാം ഇവിടെ ഫീൽഡ് കൂടുതൽ ശക്തമായി റെസോണേറ്ററിനുള്ളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു വിദ്യാർത്ഥി അതേ ശരിയാണ് അതിനാൽ ഞാൻ ഒരു ഘടന ഉണ്ടാക്കിയിട്ടുണ്ട് ലളിതമായ FDTD വിപരീത ഫുറിയർ പരിവർത്തനം സിഗ്നൽ പ്രോസസർ എന്നിവ ഉപയോഗിച്ച് ഇവ അനുരണന മോഡുകളാണെന്ന് തിരിച്ചറിയാൻ എനിക്ക് കഴിഞ്ഞു അതിനാൽ നിങ്ങൾ FDTD എങ്ങനെ ഉപയോഗിക്കുമെന്നും പ്രായോഗികമായി നിങ്ങൾ പറയേണ്ടതെന്തെന്ന് കാണിച്ചുതരാനും ഏതൊരു ഫീൽഡിനെയും ഉത്തേജിപ്പിക്കുന്ന ഏതൊരു ഘടനയും വളരെ ശക്തമായ രൂപകൽപ്പനയുമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് കൂടാതെ ഫോട്ടോണിക് ക്രിസ്റ്റലുകൾക്കും അതുപോലുള്ള മറ്റ് ഘടനകൾക്കും മറ്റ് നിരവധി ഉദാഹരണങ്ങൾ അവർക്ക് ഉണ്ട് ലിനക്സ് മെഷീനിൽ പ്രവർത്തിപ്പിക്കാൻ ഏറ്റവും എളുപ്പമുള്ളതാണ് ഇത് അതിനാൽ FDTD ലെ ഈ ഡെമോ വർക്ക് നമുക്ക് അവസാനിപ്പിക്കാം